അതിനാൽ ആ പ്രശ്നവുമായി നമുക്ക് വീണ്ടും വരാം ഇത് ഒരു സീരീസ് R L C സർക്യൂട്ട് കാരണം ഇത് 10 j 10 ആണ് അതിനാൽ ഇത് tan 1 1 45 o അതിനാലാണ് ഈ ആംഗിൾ ഇംപെഡൻസ് ആണ് കറന്റ് അതിനാൽ 10014 14 ഹരിച്ചാൽ ഇത് 7 1 ആയി മാറുന്നു വാസ്തവത്തിൽ ഇത് ഏകദേശം 7 07 ആയി മാറും കാരണം ഇത് 10010 √ 2 അതിനാൽ ഇത് 10√ 2 10 0 707 കാരണം 1√ 2 0 707 അതിനാൽഅവസാനം 7 07 ആണ് ഞാൻ 7 1 ആയി കണക്കാക്കി ഈ ആംഗിൾ 45o അതിനാൽ അടിസ്ഥാനപരമായി ഇത് sin 40 t 45 o എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫാസർ RMS മൂല്യം എടുക്കുകയാണെങ്കിൽ അത് 100√ 2 ആയിരിക്കും അതായത് 50 √ 2 വോൾട്ട് പ്രതിരോധം 10 √ 2 ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 10 j 10 എന്നാൽ 10 √ 2 അതിനാൽ എന്റെ കറന്റ് 50 √ 210 √ 2 5 ആമ്പിയർ ആയിരിക്കും ഇത് വൈദ്യുതധാരയുടെ എന്റെ rms മൂല്യമാണ് ഇത് എന്റെ RMS മൂല്യം ആണെങ്കിൽ നിങ്ങൾ √ 2 കൊണ്ട് ഗുണിച്ചാൽ അത് 7 07 ആയിരിക്കും ഫാസർ പദത്തിൽ എഴുതുമ്പോൾ i 50 √ 2 sin 40t ആകും അതിനാൽ sin ω t θ θ 0ആണ് ആകയാൽ അത് 50 √ 2 ∟0 o ആയിരിക്കും ഇത് 14 14 ന് 10 √ 2 ∟ 45o അതായത് ഇത് യഥാർത്ഥത്തിൽ √ 2 റദ്ദാക്കപ്പെടും അത് 5 ∟ 45o ആയിരിക്കും കാരണം ∟0o ∟ 45o മുകളിൽ വന്ന ആകും അതിനാൽ ഇത് 0 o 45o ∟45o ആയിരിക്കും ഈ വൈദ്യുതധാര യഥാർത്ഥത്തിൽ rms മൂല്യം ആയിരിക്കും അത് യഥാർത്ഥത്തിൽ 5 ∟ 45 o അതിനാൽ നിലവിലെ i 5 ∟ 45 o ഇപ്പോൾ ഉയർന്ന മൂല്യം 5 √ 2 ആയിരിക്കും അത് 7 07 ആണ് ഇത് ഏറ്റവും ഉയർന്ന മൂല്യമാണ് മൂല്യത്തെ t ഇൽ നൽകിയാൽ അതിനാൽ ഇത് 45 o ആംഗിൾ ആണ് അതായത് ഇത് sin ω t 45 o ഉം ആയിരിക്കും 07 ഞാൻ ഇത് ഏകദേശം 7 1 എന്ന് എഴുതി അതുകൊണ്ടാണ് ഇത് 7 07 sin 40 t 45o ആയിരിക്കുന്നത് അങ്ങനെ അത് ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങൾ ഇത് ശരിയായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു അതേസമയം ഈ വീഡിയോയിലൂടെ കടന്നുപോകു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യം ഫോറത്തിൽ ഇടുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും അടുത്തത് VR

ഇപ്പോൾ ചെയ്യുന്നത് j XL ന്റെ ഗുണനം മാത്രമാണ് XL 1l ω കണക്കുകൂട്ടുക j എന്നാൽ ആംഗിൾ 90 o ഇത് 90 o ആംഗിൾ ആണ് അത് 90 o ഉം 45 o ഉം ഉള്ള കോണാണ് നിങ്ങൾ ചേർത്താൽ 56 8 sin 40 t 135 o കിട്ടും ആർഎംഎസ് വാല്യൂ i t j X C അങ്ങനെ j എന്നാൽ അത് ആംഗിൾ 90o എന്നാണ് അതായത് i t കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ അത് 45 o ആണ് 45 90 45 o അതാണ് എന്റെ VC ഇത് ഈ V വോൾട്ടേജിലെ തൽക്ഷണ ധ്രുവീകരണം ഇവയെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്നു ഇത് 10 Ω ഇത് j 8 Ω ആണ് അത് j X c അങ്ങനെ j 8 Ω ഇത് 50 വോൾട്ട് ആണ് 40 വോൾട്ട് അത് 90 വോൾട്ട് ആണ് ഇവയെല്ലാം യഥാർത്ഥത്തിൽ rms മൂല്യമാണ് കാരണം V 100 sin 40 t ഇത് നൽകിയിരിക്കുന്നു അതിനാൽ 100√ 2 70 7 ഏകദേശം 71 വോൾട്ട് ആണ് ഇത് 70 ആണ് ഇത് rms മൂല്യം v r t കണക്കാക്കുമ്പോൾ ഇത് ഏറ്റവും ഉയർന്ന മൂല്യം v m 71 ഏകദേശം 70 7 ആണ് അതിനാൽ നിങ്ങൾ rms മൂല്യം 70 7√ 2 എടുക്കുകയാണെങ്കിൽ അത് 50 വോൾട്ട് ആയിരിക്കും അതുകൊണ്ടാണ് ഇത് 50 വോൾട്ട് സമാനമായി VL t ന് ഇത് 56 അതിനാൽ VL t 56 8 ഇതാണ് പരമാവധി മൂല്യം അങ്ങനെ 568√ 2 അത് 40 വോൾട്ടായി മാറും അതുകൊണ്ടാണ് ഇത് 40 വോൾട്ട് ഇത് ആർഎംഎസ് ഇത് ഏറ്റവും ഉയർന്ന മൂല്യം 127 അതാണ് യഥാർത്ഥത്തിൽ 90 വോൾട്ട് ഈ V ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് 71 അർത്ഥം 70 7 വോൾട്ട് ആണ് ഇത് ഇപ്പോഴത്തെ I rms മൂല്യം 5 ആമ്പിയറാണ് കാരണം ഇത് 7 1 ആണ് അത് യഥാർത്ഥത്തിൽ 7 ഇത് ഏകദേശ മൂല്യം 7 ഇത് പരമാവധി മൂല്യമാണ് നിങ്ങൾ √ 2 ഹരിച്ചാൽ അത് 5 ആമ്പിയർ ആണ് അതിനാൽ അതുകൊണ്ടാണ് ഇത് 5 ആമ്പിയർ ഈ എല്ലാ ഡയഗ്രാമും പൂർണ്ണമായും ഈ rms മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇതെല്ലാം rms മൂല്യം ആണ് ഇതാണ് ആ സർക്യൂട്ട് ഈ ഉദാഹരണം ഇതാണ് ഞാൻ എടുത്ത ഉദാഹരണം അതോടൊപ്പം എനിക്ക് ഉയർന്ന മൂല്യവും rms മൂല്യത്തിന്റെ ഉയർന്ന മൂല്യവും കാണിക്കാൻ കഴിയും അങ്ങനെ ഞങ്ങളുടെ ധാരണ വളരെ വ്യക്തമാകും ഇപ്പോൾ ചോദ്യം ഫാസറിന്റെ ആയിരിക്കും ഇത് 100√2 ∟0 o ആണ് കാരണം ഇത് 100 sin 40 t വോൾട്ടേജാണ് അതിനാൽ അത് sin ω t 0 o ഇത് 0 ആണ് ഈ Z കൊണ്ട് ഹരിക്കുന്നു ഇത് നിലവിലെ 5 ∟45o ആണ് ഇത് VR R I 50 ∟ 45 o ഇവയെല്ലാം മാഗ്നിറ്റുഡ് ആണ് 50 വോൾട്ട് 40 വോൾട്ട് ഇത് R I ആണ് അതിനാൽ ഇത് 45 o ആണ് ഇപ്പോൾ VL j XL I ആണ് അതിനാൽ I 5 ∟ 45 o j XL എന്നാൽ അത് 90 o അങ്ങനെ 90 45 അങ്ങനെ 135 o ആണ് XL കൊണ്ട് ഗുണിച്ചാൽ XL ഇവിടെ കണക്കുകൂട്ടുന്നു j XL I അതിനാൽ ഏത് മൂല്യം വന്നാലും അത് 8 Ω ആണ് അതിനാൽ ഇത് 40 വോൾട്ട് ആണ് അതുപോലെ VC j XL I കാരണം j ആംഗിൾ 90 o അതിനാൽ 90 o അത് 45 o ആണ് അതിനാൽ ഇത് 45 o വോൾട്ട് അതിനാൽ ഇത് VR ആണ് ഇത് VL ആണ് ഇത് Vc ആണ് ഇത് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട് അതിനാലാണ് ഈ ഉദാഹരണം എടുക്കുന്നത് പരമാവധി മൂല്യവും rms മൂല്യവും എല്ലാ ആശയങ്ങളും വ്യക്തമാകും അടുത്ത ചോദ്യം ഫാസർ സൂചിപ്പിക്കുന്നത് പരമാവധി മൂല്യങ്ങൾ ഉപയോഗിച്ചാണ് സമയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് പരമാവധി മൂല്യങ്ങളായിരിക്കണം കൂടാതെ ഫേസർ രൂപത്തിലോ അളവിലോ ഇത് ആർഎംഎസ് മൂല്യം ആയിരിക്കും അതാണ് ഇവിടെ എഴുതിയ ഈ കുറിപ്പ് ഇപ്പോൾ സർക്യൂട്ട് പവർ ലോസ് പിന്നീട് കാണും ഇത് ലീഡിങ് പവർ ഫാക്ടർ 0 707 ആണ് VI cosθ കണക്കു കൂട്ടുകയാണെങ്കിൽ 250 വാട്ട് തന്നെ ലഭിക്കും നിങ്ങൾ ഫേസർ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ എടുക്കുന്ന റഫറൻസാണ് അതായത് സപ്ലൈ വോൾട്ടേജ് ഇത് 70 7 ആണ് നിങ്ങൾ VR 50 ∟45o അതുപോലെ I 5 ∟45o R ന് കോണില്ല അത് 10 ആണ് ഈ വരിയിൽ തന്നെ I Vr പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കാരണം Vr 50 ∟45 o I 5 ∟45 o അതിനാൽ ഇത് സപ്ലൈ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് 7 07 ആണ് ഇത് ഏകദേശം 71 വോൾട്ട് ആണ് അടുത്തത് VL VL 40 ∟ 135 o ആണ് ഈ മൊത്തം ആംഗിൾ 135 o ആണ് V supply റെഫറൻസുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇത് VC അല്ലെങ്കിൽ VL അതുപോലെ Vc യഥാർത്ഥത്തിൽ 90 ∟ 450 ഇവയെല്ലാം VR VC VL എല്ലാം ഉണ്ട് അതിനാൽ ഈ കേസിൽ VC ലീഡ് ചെയ്യുന്നു വൈദ്യുതധാരയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് കാരണം ആംഗിൾ പോസിറ്റീവ് ആണ് ഇത് 45 o ആണ് ഇത് VL ആണ് ഈ VL VC ഇടയിലുള്ള ആംഗിൾ 180o ആണ് അതിനാൽ അന്തരഫലം കറന്റ് ലീഡ് ചെയ്യുന്നു എന്നതാണ് VC 90 വോൾട്ടും VL 40 വോൾട്ടും VC VL നേക്കാൾ വലുതാണ് അതിനാലാണ് കറന്റ് ലീഡ് ചെയ്യുന്നത് ഓരോന്നും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ കറന്റ് 45o അതിനാൽ കറന്റ് 5∟45o ആണെന്ന് അറിയുക കൂടാതെ വോൾട്ടേജ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് VI cos θ V 71 ഇത് rms മൂല്യം I 5 cos θ 5 cos 45 o അതായത് 1√ 2 ആണെങ്കിൽ ഇത് 71√ 2 ഏകദേശം 50 അതായത് 250 വാട്ട് ശരിയാണ് ഇത് പവർ VI cos θ ഞാൻ കാണിച്ചുതന്നു ഈ I 2 R 250 വാട്ട് ഇവ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കണക്കുകൂട്ടൽ തെറ്റാണ് അതിനാൽ ഓരോ ഘട്ടത്തിലും ഒരു സങ്കീർണ്ണ സംഖ്യ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ കണക്കുകൂട്ടലിൽ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ ഫേസർ ഡയഗ്രം VC ഒന്നാം ക്വാഡ്രന്റിലാണ് അതിനാൽ ഏത് മൂല്യവും ആകാം കാരണം ഫാസർ ഇൽ എല്ലാം ഇവിടെയുണ്ട് അടുത്തത് വോൾട്ട് ആമ്പിയർ വോൾട്ട് ആമ്പിയർ എന്നാൽ VA ആക്റ്റീവ് റിയാക്ടീവ് പവർ ഇവയെ കുറിച്ച നോക്കാം ഇപ്പോൾ കറന്റിന്റെയും പ്രയോഗിച്ച വോൾട്ടേജിന്റെയും rms മൂല്യങ്ങളുടെ ഉൽപന്നത്തെ അപ്പറന്റ് പവർ ഇതിനെ അപ്പറന്റ് പവർ എന്നും വിളിക്കുന്നു അതിനാൽ അപ്പറന്റ് പവർ V I cos θ ഉൾപ്പെട്ടിട്ടില്ല അത് V I യാണ് അതിനാൽ ഇപ്പോൾ ആക്റ്റീവ് പവർ Q VI sin θ വോൾട്ട് ആമ്പിയർ എന്ന് വിളിക്കുന്നു VAr V വോൾട്ട് r എന്നത് യഥാർത്ഥത്തിൽ r ആമ്പിയറിനുള്ള സ്റ്റാൻഡാണ് എന്നാൽ ചുരുക്കത്തിൽ വിളിക്കുക രണ്ടും വേർതിരിച്ചറിയാൻ മാത്രം VAR എന്ന് അതിനാൽ Q VI sin θ നമ്മൾ VAr എന്ന് വിളിക്കുന്നു റിയാക്ടീവ് പവർ വോൾട്ട് ആമ്പിയർ അത് QVI ആണ് അതിനാൽ ഈ കറന്റ് I ആണെങ്കിൽ ഈ കറന്റ് ലീഡ് ചെയ്യുന്ന് എന്നു കരുതുക ഈ ആംഗിൾ θ യാണ് അപ്പോൾ ഈ x അച്ചുതണ്ടിലെ പ്രൊജക്ഷൻ I cos θ ആണ് ഇതാണ് I sin θ ഇത് വോൾട്ടേജ് ഘടകമാണ് ഇത് റിയാക്ടീവ് ഘടകമാണ് അതിനാൽ ഇത് ഈ ത്രികോണം ഇത് I I cos θ I sin θ ഈ എല്ലാത്തിനെയും V കൊണ്ട് ഗുണിക്കുക അതിനാൽ ഈ ഡയഗ്രം ഇതുപോലെയാണെന്ന് കാണുക അടുത്തത് V കൊണ്ട് ഗുണിച്ചാൽ അത് VI ആയിരിക്കും VI cos θ ആയിരിക്കും VI sin θ അതായത് റിയാക്ടീവ് വോൾട്ട് ആമ്പിയർ ഇത് റിയാക്ടീവ് വോൾട്ട് ആമ്പിയർ റിയാക്ടീവ് പവർ ഇതാണ് റിയൽ പവർ എന്ന് വിളിക്കുന്നു ഇതിനെ റിയൽ പവർ അല്ലെങ്കിൽ പവർ എന്ന് വിളിക്കുന്നു അതിനാൽ വോൾട്ട് ആമ്പിയർ VI വോൾട്ട് യഥാർത്ഥ പവർ 2 റിയാക്ടീവ് പവർ 2 അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ പവർ P ആണെങ്കിൽ അത് Q ആണെങ്കിൽ ഇത് P 2 Q2 ആയിരിക്കും ഇത് വോൾട്ട് ആമ്പിയർ VI അതിനാൽ ഇനി മുതൽ കോംപ്ലക്സ് നൊട്ടേഷൻ മറ്റ് കാര്യങ്ങളും എല്ലാം ഞാൻ പറയും പക്ഷേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കോംപ്ലക്സ് നൊട്ടേഷൻ ഉപയോഗിച്ച് വൈദ്യുതിയുടെ കണക്കുകൂട്ടൽ ആരംഭിക്കാം അതിനാൽ ഈ ഫാസർ V VCos α ആണ് ഈ ലംബ പ്രൊജക്ഷൻ ഈ ഒരു V V sin α അതുപോലെ ഇതാണ് കറന്റ് ഈ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ I ഇത് താഴെ എഴുതിയിരിക്കുന്നു അതിനാൽ ഇതാണ് I ഈ തിരശ്ചീന പ്രൊജക്ഷൻ I I cos β ലംബമായത് I I sin β വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ ഇതാണ് വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ α β അതിനർത്ഥം യഥാർത്ഥത്തിൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോണിനെ പവർ ഫാക്ടർ ആംഗിൾ എന്ന് വിളിക്കുമ്പോഴെല്ലാം അത് വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോണാണ് α β ലെ വ്യത്യാസം അതിനാൽ പവർ ഫാക്ടർ I cos β j I sin β ഇതാണ് I ∟ β അതിനാൽ അടുത്തത് അർത്ഥമാക്കുന്നത് ഇതെല്ലാം V V Cos α V V sin α I I cos β I I sin β അതിനാൽ ഈ പദപ്രയോഗങ്ങളെല്ലാം ഞാൻ ഇവിടെ എഴുതിയതെന്തും VCos α യെ v വച്ചും V sin α യെ v എന്നി എഴുതുക അതുപോലെ കറന്റ് ഞാൻ പറഞ്ഞു I cos β j I sin β അതിനാൽ ഞാൻ ആ ഫാസർ ഡയഗ്രം വരയ്ക്കുക അതിനുശേഷം ഓരോന്നായി നോക്കുക അത് വളരെ എളുപ്പമാണ് വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഫേസ് cos α β അതിനാൽ സജീവ പവർ VI cos α β ആയിരിക്കും അതിനാൽ അതിനർത്ഥം ഇത് സജീവ ശക്തി P VI cos α β അതിനാൽ cos α cos β sin α sin β അതിനാൽ Vcos α ഇത് VI കൊണ്ട് ഗുണിച്ചാൽ VCos α v I cos β i ഫാസർ ഡയഗ്രത്തിൽ എല്ലാം എഴുതിയിരിക്കുന്നു ലംബവും തിരശ്ചീനവുമായ പ്രൊജക്ഷൻ എടുത്തു അതുപോലെ V sin α v ' കൂടാതെ I sin β i' അതിനർത്ഥം P vi v i ഇവിടെ ഇതെല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ P v i v i അതിനാൽ ഇത് യഥാർത്ഥ ശക്തിയാണ് സജീവ ശക്തി ഇപ്പോൾ ക്രിയാത്മക ശക്തി Q VI sin α β അതിനാൽ ഇത് VI sin α cos β cos α sin β sin α cos β cos α sin β V sin α v 'കൂടാതെ I cos β i അതിനാൽ ഇത് v i VCos α v I sin β i ആണ് അതിനാൽ Q v i v i ഇപ്പോൾ കറന്റ് I ∟ β ഇതിനർത്ഥം കറന്റ് കൊഞ്ചുഗേറ്റ് I ∟ β I ∟β I e j β ഇത് കൊഞ്ചുഗേറ്റ് കറന്റ് എന്ന് എഴുതാം ഒന്നുകിൽ നിങ്ങൾക്ക് P jQ വോൾട്ടേജ് ആണെന്ന് പറയുക അത് 30 o കൂടാതെ എനിക്ക് I എനിക്ക് 5 ∟ 15 o ആമ്പിയർ എന്ന് പറയുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ എന്താണ് അതിനാൽ ഞാൻ ഒരു റഫറൻസ് ലൈൻ ഇതാണ് കറന്റ് അതിനാൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള കോൺ എന്താണ് അത് യഥാർത്ഥത്തിൽ 30 15 ആണ് അത് 45 o ആണ് അതിനാൽ കൺജഗേറ്റ് 10∟30 o ആണ് അതിനാൽ ഇത് 10 ∟30o 5 ∟ 15o ആണ് അങ്ങനെ യഥാർത്ഥത്തിൽ 50 ∟45 o ആണ് അതായത് ഇത് 50 cos 45 ആകും അങ്ങനെ 50√ 2 j 50√ 2 ആയിരിക്കും കാരണം sin 45 1√ 2 ആണ് അതായത് ഈ സാഹചര്യത്തിൽ എന്റെ P ഈ സാഹചര്യത്തിൽ മാറും അത് 50√ 2 വാട്ട് ആയിരിക്കും Q 50√ 2 VAr ആയിരിക്കും കാരണം P jQ 50√ 2 j 50√ 2 അതിനാൽ യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗം ഇപ്പോൾ കോംപ്ലക്സ് നിർബന്ധമാണ് അല്ലാത്തപക്ഷം വോൾട്ടേജും വൈദ്യുതധാരയും തമ്മിലുള്ള കോൺ എടുക്കാൻ കഴിയില്ല അല്ലാത്തപക്ഷം ഇത് ചേർക്കുകയാണെങ്കിൽ 45o ലഭിക്കുന്നു എന്നാൽ ഗണിതശാസ്ത്രപരമായി കൺജഗേറ്റ് ഉപയോഗിക്കാതെ ഇത് ലഭിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൺജഗേറ്റ് പരിഗണിക്കുന്നത് പവർ ഫാക്ടർ ഇപ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അർത്ഥമാക്കുന്നത് P jQ ഇപ്പോൾ വോൾട്ടേജ്എന്ന് എഴുതാം അതുപോലെ എനിക്ക് i ji എന്ന് എഴുതാം അത് കൺജഗേറ്റ്ണ് ഭാഗം ഇതാണ് അതിന്റെ അർത്ഥം യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗം വേർതിരിക്കുകയാണെങ്കിൽ അങ്ങനെ P vi v i ആകും Q എന്നത് v i v i ആയിരിക്കും അതിനാൽ ഇവിടെ ബന്ധം ഉപയോഗിച്ച് vi vi ൽ എത്തി P vi v'i നേടി അതിനാൽ പവർ ഫാക്ടർ

ധാരാളം കണക്കുകൂട്ടൽ സമയം ആവശ്യമാണ് അതിനാൽ എന്തായാലും ഇവയെയാണ് ഞങ്ങൾ ഒരു അടിസ്ഥാന കോഴ്സ് എന്ന് വിളിക്കുന്നത് അതിനാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഫോമിൽ ഇടുക ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകും V എടുത്തിട്ടുണ്ട് അതിനാൽ ഇത് 100 j 2 ഉം I 10 j 5 ഉം അത് 10 j 5 ആയിരിക്കും അതിനാൽ ഗുണിച്ചാൽ 2000 j 1500 ആകും അതായത് യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗം വേർതിരിക്കുക അതിനാൽ P 2000 വാട്ട് അതായത് 2 കിലോ വാട്ട് Q 1500 var 1 5 കിലോ VAr യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗം ഇപ്പോൾ സിംഗിൾ ഫേസ് സർക്യൂട്ട് V ആണ് ഇതിലൂടെ ഒഴുകുന്ന കറന്റ് I ആണ് എല്ലാം rms ആണ് എല്ലാം sin ω പ്രസ്താവിക്കാത്തതുവരെ എല്ലാം rms ആണ് അതിനാൽ ഇത് ഇൻഡക്റ്റീവ് ഭാഗമായതിനാൽ ഇത് കപ്പാസിറ്റീവ് ഭാഗമാണ് അതിനാൽ ഇത് എപ്പോൾ എങ്ങനെ പരിഹരിക്കും ആദ്യം സർക്യൂട്ട് വരയ്ക്കുക തുടർന്ന് എന്താണ് ചെയ്തതെന്ന് നോക്കുക അതിനാൽ Z1 R1 jX1 Z2 R2 jX2 Z 3 R3 എന്നിവ എടുക്കുന്നു അതിനാൽ ഇത് Z1 ആണ് ഇത് Z2 ആണ് ഇത് Z 3 ആണ് എല്ലാം R ആണ് എന്നാൽ എല്ലായിടത്തും ബാർ ഇടുകയില്ല ഇപ്പോൾ Z I V എന്നിവ ലളിതമായി പറഞ്ഞാൽ ഇവയെല്ലാം I V എന്നിവ ഫാസർ അളവാണ് V1 I Z1 V2 I Z2 V3 I Z 3 അതിനാൽ ഇവിടെ V2 I Z2 V3 I Z 3 അതിനാൽ V ഞാൻ വീണ്ടും വീണ്ടും ഫാസർ തുകയാണ് അതിനാൽ V1 V2 V3 I Z1 Z2 Z 3 ഈ മൂല്യങ്ങളെല്ലാം Z1 R1 jX1 Z2 r R2 jX2 Z 3 R3 എന്നിവ മാറ്റിസ്ഥാപിക്കുക എനിക്ക് I R1 R2 R3 j R X എന്നിവ ഇവിടെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ Z √ R2 X2 വ്യാപ്തി കാരണം അത് R jX ആണ് അതിനാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് √ R2 X2 ഉം ∟θ അതിനാൽ θ tan 1XR അതിനാൽ അത് X X1 X2 ആണ് tan 1 X1 X2R1 R2 R3 അതിനാൽ I V ∟ 0√ R2 X2 ∟θ അതിനാൽ ഇത് തുല്യമായ മൊത്തം പ്രതിരോധം V ∟ 0 θ √ R2 X2 ആണ് അതിനാൽ ഇത് V∟ θ √ R2 X2 ഇത് I ആണ് പവർ ഫാക്ടർ ചെയ്യുന്നു നെഗറ്റീവ് ആണെങ്കിൽ കറന്റ് പിന്നിലാകും അതിനാൽ tan θ XR ഇതിന് sin θX cos θR 1√ R2 X2 കാരണം ഇത് sin θ cos θ XR അതിനാൽ sin θX cos θR 1√ R2 X2 അതിനാൽ ഇത് cos θ R√ R2 X2 ആണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഉദാഹരണം എടുക്കും ഇത് 4 j 3 ആണെന്ന് കരുതുക ഇത് 6 j 8 ഉം 2 ഉം V1 V2 V3 ഉം വോൾട്ടേജ് ഇതാണ് കറന്റ് അതിനാൽ 100 ∟0 അതിനാൽ ഈ I VZ 100 ∟0Z1 Z2 Z 3 ലളിതമായി പരിഹരിക്കുക 7 6o ആമ്പിയർ ലഭിക്കും ലളിതമായി V1 I Z1 ആയിരിക്കും I നമുക്ക് അറിയാം Z 4 j 3 കൊണ്ട് ഗുണിക്കുബോൾ 38 5 o ലഭിക്കു൦ അതുപോലെ V2 I 2 Z2 ഇതാണ് I2 Z2 എന്നത് 6 j 2 ഗുണിച്ച് ലളിതമാക്കുമ്പോൾ 76 5 o ലഭിക്കും അതുപോലെ V3 I 3 Z 3 എന്നത് Z 3 R 2 Ω അതിനാൽ ഇത് 15 38 ആംഗിൾ 22 6 o വോൾട്ട് ആയിരിക്കും V1 V2 V3 ചേർക്കുകയാണെങ്കിൽ അത് 100 j വോൾട്ടായി മാറും ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്യൂട്ട് ധ്രുവീകരണം നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് ആയിരിക്കും ധ്രുവീയത അടയാളപ്പെടുത്തുക പല സ്ഥലങ്ങളും മനപ്പൂർവ്വം ഈ പ്രഭാഷണ ക്ലാസിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഇത് ശരിയായി നീങ്ങുന്നു കൂടാതെ ധ്രുവീകരണം അടയാളപ്പെടുത്തുക അതിനാൽ ഇത് ഒരു ഭാഗമാണ് ഇത് കാപ്പാസിറ്റിവ് ഭാഗമാണ് ഇത് ഇതാണ് അതിനാൽ കെവിഎൽ പ്രയോഗിച്ചാൽ അത് കൂടാതെ ആക്കാം അതിനാൽ ഇത് V1 V2 V3 V ആകും എന്നാൽ ഇത് ഫാസർ തുക ശരിയാണ് അതിനാൽ ഈ വോൾട്ടേജും ആംഗിളും പരിഗണിക്കേണ്ടതുണ്ട് അത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 വോൾട്ട് ലഭിക്കും അതിനാൽ അരൌ ഇടാത്തതിനാൽ ഇത് ഒരു ഫാസർ അത് ∟0 ആണ് അതിനാൽ P VI cos θ 710 വാട്ടിന് തുല്യമായി ലഭിക്കും അതിനാൽ ഇവിടെയും 710 വാട്ടിന് അതേ ഫലം ലഭിക്കും ഈ R1 R2 R3 സർക്യൂട്ടിൽ നിന്നുള്ളതാണ് ഇത് R1 ആണ് 4 Ω R2 ആണ് 6 Ω R3 2 Ω അതിനാൽ ഈ ഇങ്ങനെ പവർ കണക്കുകൂട്ടി അതുപോലെ VI cos θ ലഉപയോഗിച്ചും പവർ കണക്കാക്കി ഞാൻ വരയ്ക്കാത്ത ഫാസർ വരയ്ക്കുക